ഹലോ എല്ലാവർക്കും നമസ്കാരം സോഫ്റ്റ് സ്കിൽസും വ്യക്തിത്വവും വികസിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള എന്റെ കോഴ്സിലേക്ക് വീണ്ടും സ്വാഗതം എൽ മൂക്ക് ഐ ടി കാൺപൂർ നടത്തുന്ന കോഴ്സാണിത് ഏകദേശം 15000 വിദ്യാർത്ഥികൾ ഈ കോഴ്സിനായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളിൽ ഭൂരിഭാഗവും ഈ കോഴ്സ് നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നും അറിയുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആശയവിനിമയത്തിലാണ് പ്രധാന ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഈ മൊഡ്യൂളിൽ പ്രത്യേകിച്ച് ടെലിഫോൺ ആശയവിനിമയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്നും ഈ ആഴ്ച നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അടിസ്ഥാന ടെലിഫോൺ കഴിവുകളെക്കുറിച്ച് ഞാൻ ഈ മൊഡ്യൂളിൽ ചർച്ച ചെയ്യും എന്നാൽ ഞാൻ ആരംഭിക്കുന്നതിന് മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ ചെയ്തതിന്റെ പെട്ടെന്നുള്ള റീക്യാപ്പിൽ നിന്ന് ആരംഭിക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലായ്പ്പോഴും ചെയ്യാറുണ്ടായിരുന്നു മുമ്പത്തെ പ്രഭാഷണത്തിൽ ഞാൻ സജീവമായ ശ്രവണത്തിന് വളരെയധികം ശ്രദ്ധ നൽകി സജീവമായ ശ്രവണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അറിവ് ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചു വിജയകരമായ വ്യക്തിപരവും തൊഴിൽപരവുമായ ബന്ധങ്ങൾ സജീവമായ ശ്രവണത്തെ ആശ്രയിച്ചിരിക്കുന്നു എന്ന വസ്തുത ഞാൻ ഊന്നിപ്പറഞ്ഞു അറിവ് നേടുന്നതിന് നിങ്ങൾക്ക് സജീവമായ കേൾവി ആവശ്യമാണ് അറിവ് തന്നെ ശക്തിയാണ് അറിവ് നിങ്ങൾക്ക് നൽകുന്ന തരത്തിലുള്ള ശക്തിയോടെ മാത്രമേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതെന്തും നേടാൻ കഴിയൂ സജീവമായ ശ്രവണം നിങ്ങളുടെ ജോലിയുടെ ഫലപ്രാപ്തിയിലേക്ക് സംഭാവന ചെയ്യുന്നു ഇത് നിങ്ങൾ ഒഴിച്ചുകൂടാനാവാത്തവരാണോ അവ അനിവാര്യവും മാറ്റാനാവാത്തതുമാണ് തുടർന്ന് നിങ്ങളുടെ ജോലിയിൽ നിലനിർത്താനും ഉയർന്ന നിലയിലേക്ക് പോകാനും ഇത് നിങ്ങളെ സഹായിക്കും സൃഷ്ടിപരമായ വ്യക്തിഗത തലത്തിലും കമ്പനിയിലോ ജോലിയിലോ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ആശയവിനിമയത്തിൻറെയും സോഫ്റ്റ് സ്കിൽസിൻറെയും രണ്ട് പ്രധാന വശങ്ങളായ നിങ്ങളുടെ അനുനയപരവും ചർച്ചാപരവുമായ കഴിവുകൾ വികസിപ്പിക്കാൻ ഇത് മൊത്തത്തിൽ നിങ്ങളെ സഹായിക്കും പ്രഭാഷണത്തിന്റെ പിന്നീടുള്ള ഭാഗത്ത് സജീവമായ ശ്രവണത്തിനുള്ള തടസ്സങ്ങളിൽ ഞങ്ങൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തടസ്സങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് രണ്ട് തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകാമെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് യഥാർത്ഥത്തിൽ പരിസ്ഥിതി മൂലമുണ്ടാകുന്ന ഭൌതിക തടസ്സങ്ങൾ അതായത് പുറത്തുനിന്നുള്ള ശബ്ദവ്യതിയാനത്തിലെ പ്രശ്നം കനത്ത മഴ പെയ്യുകയാണെങ്കിൽ പുറത്ത് ഇടിമുഴക്കമുണ്ട് തുടർന്ന് നിങ്ങൾക്ക് പുറത്തുള്ള വളരെയധികം അസ്വസ്ഥതകൾ ക്ലാസ് മുറിയിൽ നിങ്ങളുടെ ശ്രദ്ധ നൽകാൻ ബുദ്ധിമുട്ടായേക്കാം അതിനാൽ അത് ശാരീരിക തടസ്സങ്ങൾക്ക് തുല്യമാണ് എന്നാൽ നമ്മൾ സാങ്കേതിക ക്രമീകരണങ്ങൾ നമ്മൾ സാങ്കേതിക ക്രമീകരണങ്ങൾ നടത്തുകയോ അല്ലെങ്കിൽ വാതിൽ അടച്ച് വായുസഞ്ചാരമുള്ളതാക്കുകയോ ചെയ്താൽ നമുക്ക് കാര്യങ്ങൾ ശരിയായി കേൾക്കാൻ കഴിയും എന്നാൽ ശാരീരികവും മാനസികവുമായ വശങ്ങളായി വിഭജിക്കാവുന്ന ആളുകളുമായി ബന്ധപ്പെട്ട തടസ്സങ്ങളുമായി ബന്ധപ്പെട്ടതാണ് പ്രശ്നങ്ങൾ പനി അല്ലെങ്കിൽ തലവേദന അല്ലെങ്കിൽ ഏതെങ്കിലും വയറുവേദന അല്ലെങ്കിൽ നിങ്ങളുടെ മാനസികാവസ്ഥയെ മാറ്റിമറിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസുഖം അല്ലെങ്കിൽ മുറി പോലും നിങ്ങളുടെ ശരീരത്തെ ബാധിക്കുന്നവയാണ് ഫിസിയോളജിക്കൽ മാനസികാവസ്ഥയെയും മനോഭാവത്തെയും ബാധിക്കുന്നവയാണ് ഫിസിയോളജിക്കൽ രോഗങ്ങൾ തുല്യ പ്രാധാന്യമുള്ളതും അതല്ലെങ്കിൽ കൂടുതൽ പ്രാധാന്യമുള്ളതുമായ മറ്റൊരു വശം നിങ്ങളുടെ മനസ്സിൽ പ്രവർത്തിക്കുന്ന മാനസിക വശമാണ് അതായത് നിങ്ങളുടെ സംസാരം നൽകുന്ന വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ വിദ്വേഷം ആ വ്യക്തിക്കെതിരായ നിങ്ങളുടെ മുൻവിധികൾ അതിനാൽ ഈ കാര്യങ്ങളെല്ലാം സജീവമായ ശ്രവണത്തിന്റെ കാര്യത്തിൽ തടസ്സങ്ങളായി പ്രവർത്തിക്കാൻ കഴിയും അപര്യാപ്തമായ ഭാഷാ അടിത്തറ ഭാഗികമായ ശ്രവണശേഷി താൽപ്പര്യമില്ലായ്മ അല്ലെങ്കിൽ വിഷയത്തിൽ താൽപ്പര്യക്കുറവ് തുടങ്ങിയ സജീവമായ ശ്രവണത്തിന്റെ മറ്റ് ചില വശങ്ങളെക്കുറിച്ച് ഞാൻ പിന്നീട് വിശദമായി ചർച്ച ചെയ്തു നിങ്ങൾക്ക് ഒരു പ്രഭാഷണം നൽകുകയോ നിങ്ങളുടെ പ്രഭാഷണം നൽകുകയോ അല്ലെങ്കിൽ ഒരു സംഭാഷണത്തിൽ ഏർപ്പെടുകയോ ചെയ്യുന്ന വ്യക്തിയെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിലും ആ വ്യക്തി സംസാരിക്കുന്ന വിഷയത്തിലെങ്കിലും താൽപര്യം വ്യക്തി സംസാരിക്കുന്ന വിഷയം മുൻകൂട്ടി വിധിക്കുന്നത് മറ്റൊരു മോശം ശീലമാണ് ഇത് സജീവമായ ശ്രവണത്തിന്റെ കാര്യത്തിൽ ഒരു തടസ്സമാകുന്നു നിങ്ങൾ ആരെയെങ്കിലും ശ്രദ്ധിക്കുമ്പോൾ മനസ്സ് തുറന്നിരിക്കണം പ്രഭാഷകനോടുള്ള വിദ്വേഷമോ സ്നേഹമോ രണ്ട് വഴികളും ദോഷകരമാകും പ്രഭാഷകനോടുള്ള സ്നേഹം നിങ്ങളെ അനുകൂല പക്ഷപാതം സൃഷ്ടിക്കും ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിൽ നിന്ന് വിദ്വേഷം നിങ്ങളെ പൂർണ്ണമായും വിച്ഛേദിക്കും ഉള്ളിൽ വളരെ ദുർബലമായി തോന്നുന്ന വ്യത്യാസം നിങ്ങളുടെ സജീവമായ ശ്രവണത്തെയും ബാധിക്കും കാരണം നിങ്ങൾക്ക് സംശയങ്ങളൊന്നും വ്യക്തമാക്കാൻ താൽപ്പര്യമില്ല നിങ്ങൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾ ഹിന്ദി മീഡിയം അല്ലെങ്കിൽ തെലുങ്ക് മീഡിയം അല്ലെങ്കിൽ മറാത്തി മീഡിയം എന്ന് പറയാം നിങ്ങളുടെ ഭാഷാ പ്രാവീണ്യം വളരെ ദുർബലമാണെന്ന് നിങ്ങൾ കരുതുന്നു നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ആ വ്യക്തിയെ കേൾക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിങ്ങളുടെ സാങ്കേതിക പദാവലി വളരെ ദുർബലമാണെന്നും ബാക്കിയുള്ളവർ വളരെ മിടുക്കരാണെന്നും നിങ്ങൾക്ക് അത് കേൾക്കാൻ കഴിയില്ലെന്നും നിങ്ങൾ കരുതുന്നു അതിനാൽ അത് ആത്മവിശ്വാസത്തോടെ മാറ്റിസ്ഥാപിച്ച് നിങ്ങൾ മറികടക്കേണ്ട നിങ്ങളുടെ വ്യത്യാസമാണ് കാര്യങ്ങൾ അറിയുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ ഉത്സാഹമുള്ളതിനാലും നിങ്ങൾക്ക് അത് അറിയാമെന്ന് നിങ്ങൾ കരുതുന്നതിനാലും സ്പീക്കർക്ക് അത് അറിയാമെങ്കിലും സ്പീക്കറെ തടയാൻ ശ്രമിക്കുന്നതുകൊണ്ടും സ്പീക്കറെ അവിടെയും അവിടെയും സ്പീക്കർക്ക് അത് അറിയാമെങ്കിലും സ്പീക്കർ നിങ്ങൾക്ക് ആശയങ്ങൾ നൽകുന്നതിൽ അൽപ്പം മന്ദഗതിയിലാണ് അതിനാൽ ഇതുമായി സംയോജിപ്പിക്കുന്നത് അസഹിഷ്ണുതയോ അക്ഷമയോ ആണ് അതിനാൽ നിങ്ങൾ ചാടുന്ന പ്രസംഗം അവസാനിപ്പിക്കാൻ സ്പീക്കറെ അനുവദിക്കാൻ നിങ്ങൾ അക്ഷമരാണ് തുടർന്ന് സ്പീക്കർ വിടുന്ന ശൂന്യതകൾ നികത്താൻ നിങ്ങൾ ശ്രമിക്കുന്നു ആഴത്തിൽ വേരൂന്നിയ വിശ്വാസങ്ങളാണ് അവസാനത്തേത് എന്നാൽ സജീവമായ ശ്രവണത്തിനുള്ള തടസ്സങ്ങളുടെ കാര്യത്തിൽ ഞാൻ ചർച്ച ചെയ്യുന്ന ഏറ്റവും ചെറിയ തടസ്സമല്ല അതിനാൽ നമ്മുടെ സ്വന്തം ബോധ്യങ്ങൾ നമ്മുടെ സ്വന്തം വിശ്വാസങ്ങൾ നമ്മുടെ സ്വന്തം മാനസികാവസ്ഥ സൃഷ്ടിക്കും തുടർന്ന് നമ്മൾ ഒന്നുകിൽ ഒരു വൈജ്ഞാനിക വൈരുദ്ധ്യത്തിലേക്കോ അനുരഞ്ജനത്തിലേക്കോ പോകും പ്രഭാഷകൻ നമുക്ക് നൽകാൻ ശ്രമിക്കുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രഭാഷകനുമായി നാം സൃഷ്ടിക്കുന്ന വൈരുദ്ധ്യമാണ് വിയോജിപ്പ് ഞങ്ങൾ പോരാടാൻ ശ്രമിക്കുന്നു ചർച്ചകൾ നടത്താൻ ശ്രമിക്കുന്നു ഞങ്ങൾ എല്ലായ്പ്പോഴും അത് നിരസിക്കാൻ ശ്രമിക്കുന്നു തുടർന്ന് അപമാനിക്കാൻ പോലും ശ്രമിക്കുന്നു വീണ്ടും നമ്മുടെ വിശ്വാസങ്ങളെയും മൂല്യനിർണ്ണയ സംവിധാനങ്ങളെയും സംബന്ധിച്ചിടത്തോളം വികസിപ്പിച്ചെടുത്ത പ്രഭാഷകനോടുള്ള നമ്മുടെ സാദൃശ്യമാണ് അനുരഞ്ജനം സജീവമായ പക്ഷപാതം അപകടകരമാകാം തുടർന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ഹിറ്റ്ലർ ആരാധകന്റെ ഉദാഹരണം നൽകി അദ്ദേഹം ഹിറ്റ്ലറെക്കുറിച്ച് വളരെ വിലമതിക്കാവുന്ന ഇനം എഴുതി അത് വായിക്കുന്ന ഏതൊരാളും അദ്ദേഹം വളരെ മികച്ച വ്യക്തിയാണെന്ന് കരുതും ആ വ്യക്തിക്ക് ലോകമഹായുദ്ധസമയത്ത് ഹിറ്റ്ലർ വരുത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് അറിയില്ലെങ്കിൽ അതിനാൽ ഈ മൊഡ്യൂളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്ത ശേഷം നമുക്ക് ടെലിഫോൺ ആശയവിനിമയത്തിലും ടെലിഫോൺ ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾ അറിയേണ്ട ചില അടിസ്ഥാന കഴിവുകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം മിക്കപ്പോഴും ടെലിഫോൺ ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആശയവിനിമയത്തിനായി ദുരുപയോഗം ചെയ്യുന്ന പകരം അത് ആശയവിനിമയത്തിനായി ദുരുപയോഗം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഇത് നമ്മൾ ദുരുപയോഗം ചെയ്യുന്ന ഒരു ഉപകരണമാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ ഈ ഉപകരണം ആദ്യമായി കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഗ്രഹാം ബെൽ ആണ് തുടർന്ന് അദ്ദേഹം അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റിനെ വിളിച്ചപ്പോൾ അതിനാൽ ഈ ഉപകരണം രസകരമായിരിക്കാം എന്നതിൽ സംശയമില്ല പക്ഷേ ആരാണ് ഇത് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല എന്ന് രാഷ്ട്രപതി അഭിപ്രായപ്പെട്ടു അതിനാൽ അക്കാലത്തെ ആശയം പലരും ഇത് ഉപയോഗിക്കില്ലെന്ന് കരുതിയിരുന്നു എന്നാൽ ഇത് ഇന്ന് ഉപയോഗിക്കുക മാത്രമല്ല ദുരുപയോഗം ചെയ്യപ്പെടുകയും ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾക്കറിയാം തുടർന്ന് അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിത്തീർന്നിരിക്കുന്നു ഇപ്പോൾ സോഫ്റ്റ് സ്കിൽസിന്റെയും വ്യക്തിത്വ വികസനത്തിന്റെയും കാര്യത്തിൽ അത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ വ്യക്തിത്വം വികസിപ്പിക്കുന്നതിൽ ഇത് പ്രധാനമാണ് കാരണം നിങ്ങൾ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്ന രീതി അറിയുക എങ്ങനെ എപ്പോൾ ഫോൺ ഉപയോഗിക്കുന്നു എന്ന് അറിയുക എന്നിവയും നിങ്ങൾ ഏതുതരം വ്യക്തിയാണെന്ന് ഞങ്ങളോട് പറയും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ചില അന്വേഷണാത്മക ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു തുടർന്ന് നിങ്ങൾ ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുകയും തുടർന്ന് നിങ്ങൾ അവയെക്കുറിച്ച് ചിന്തിക്കുകയും തുടർന്ന് നിങ്ങൾ ടെലിഫോൺ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ആരാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു നിങ്ങൾ എങ്ങനെ പെരുമാറുന്നു ഇപ്പോൾ നമുക്ക് ആദ്യ ചോദ്യങ്ങളിൽ നിന്ന് ആരംഭിക്കാം നിങ്ങൾ എന്തിനാണ് ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നത് ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ എന്തിനാണ് ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നത് ആരെയെങ്കിലും ഫോണിൽ വിളിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് എന്താണ് ആളുകൾ എന്നോട് പറയുന്നു അവർക്ക് വിരസത തോന്നുമ്പോൾ ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നു അവർക്ക് വിരസത തോന്നുന്നു തുടർന്ന് അവർ ആരോടെങ്കിലും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആരും ചുറ്റും ഇല്ല അതിനാൽ സമയം ചെലവഴിക്കാൻ അവർ ആരെയെങ്കിലും വിളിക്കുന്നു അവർ ചാറ്റ് ചെയ്യുന്നു ആശയവിനിമയം ഒരു പ്രധാന ഉദ്ദേശ്യമാണ് ആശയങ്ങൾ പങ്കിടുക ഒരാളുമായി ആശയവിനിമയം നടത്തുന്നതിലെ ആനന്ദം ആസ്വദിക്കുക ആ പിഴയ്ക്ക് ടെലിഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ വിരസത ഇല്ലാതാക്കുന്നു നിങ്ങൾ ആസ്വദിക്കുന്നു അതിനാൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളോട് തോന്നിയതിനുശേഷം നിങ്ങൾക്ക് സുഖം തോന്നിയേക്കാം ആളുകൾ കൌതുകത്തിനായി ടെലിഫോണും ഉപയോഗിക്കുന്നു അതിനാൽ നിങ്ങൾ ഇത് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ കണ്ടെത്തുന്നുണ്ടോ നിങ്ങൾ അത് കൌതുകത്തിന് മാത്രമാണോ ഉപയോഗിക്കുന്നത് ആരെങ്കിലും എന്താണ് ചെയ്യുന്നതെന്ന് കണ്ടെത്തുന്നത് പോലെ ചിലപ്പോൾ വ്യക്തിയെ സഹായിക്കുന്നതിനോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഉപദ്രവിക്കുന്നതിനോ ഉള്ള ജിജ്ഞാസയിൽ നിന്ന് നിങ്ങൾ ഒരു മത്സരപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണെങ്കിൽ അതിനാൽ നിങ്ങൾ സമഗ്രമാണ് അല്ലെങ്കിൽ നാളെ ഒരു പരീക്ഷ ഉണ്ടെങ്കിൽ നിങ്ങൾ വളരെ സമഗ്രമാണ് അതിനാൽ നിങ്ങൾ വിളിക്കുന്നതിനായി തയ്യാറെടുക്കുന്ന നിങ്ങളുടെ സുഹൃത്തിനെ നശിപ്പിക്കാനും തുടർന്ന് അനാവശ്യ വിവരങ്ങൾ നൽകാനും താൽപ്പര്യം സൃഷ്ടിക്കാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങനെ ആ വ്യക്തി അതിൽ നിന്ന് വ്യതിചലിക്കപ്പെടും അല്ലെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ വിളിക്കുകയും തുടർന്ന് ചില പ്രധാന വിവരങ്ങൾ പങ്കിടുകയും ചെയ്യുന്നു അതിനാൽ കൌതുകത്താൽ നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുന്നു നിങ്ങളുടെ അരക്ഷിതാവസ്ഥ കാരണം നിങ്ങളുടെ സ്വന്തം അടിസ്ഥാന അരക്ഷിതാവസ്ഥ കാരണം നിങ്ങൾ ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നു ഉദാഹരണത്തിന് സുഹൃത്തുക്കൾക്കിടയിൽ പ്രേമികൾക്കിടയിൽ ദമ്പതികൾക്കിടയിൽ ആളുകൾ തമ്മിൽ വളരെ അടുപ്പമുള്ള ആളുകൾ അസ്വസ്ഥരാകുന്നു അതിനാൽ വീട്ടമ്മയെ ശല്യപ്പെടുത്തുന്നു എന്ന് നമ്മൾ പറയുന്നു എന്നാൽ സംശയാസ്പദമായ ഭർത്താവും നമുക്കുണ്ട് അതിനാൽ ആ വ്യക്തി എവിടെയാണെന്നും അവൻ എന്താണ് ചെയ്യുന്നതെന്നും അവൻ അല്ലെങ്കിൽ അവൾ ആ വ്യക്തി എവിടെയാണ് അവൻ എന്താണ് ചെയ്യുന്നത് അവൻ അല്ലെങ്കിൽ അവൾ ആരെ വിളിക്കുന്നു പരിശോധിക്കുകയും സാധൂകരിക്കുകയും ചെയ്യുന്നു അതിനാൽ ഒരിക്കൽ സുരക്ഷ സ്വന്തമാക്കിയാൽ മറ്റേയാൾ അത് മറ്റൊന്നിൽ അടിച്ചേൽപ്പിക്കുന്നു തുടർന്ന് ഈ ഉപകരണം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ബന്ധം നിലനിർത്താൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നു വിവരങ്ങൾ കൈമാറുന്നത് നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുന്നതിനുള്ള മറ്റൊരു കാരണമാണ് അത് നല്ല വിവരമായിരിക്കാം മോശമായിരിക്കാം അല്ലെങ്കിൽ ചില ഫോൺ നമ്പറുകൾ നൽകുന്ന ലളിതമായ വിവരമായിരിക്കാം അതിനാൽ ഒരു ജോലിയെക്കുറിച്ചുള്ള ചില വിശദാംശങ്ങൾ നൽകുക വന്ന ഒരു പരസ്യത്തെക്കുറിച്ചുള്ള ചില വിവരങ്ങൾ പങ്കിടുക തുടങ്ങിയവ അതിനാൽ വിവരങ്ങൾ കൈമാറുകയും നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുകയും നല്ല വാർത്തകൾ പങ്കിട്ടതിന് നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഒരു വ്യക്തിയെ വിളിച്ച് അത് പങ്കിടുന്ന ഒരു പ്രധാന കാര്യമാണിത് സംഭവങ്ങൾ കൂടിക്കാഴ്ചകൾ എന്നിവയെക്കുറിച്ചും നിങ്ങൾ ആളുകളെ അറിയിക്കുന്നു അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുകയും ഇത് ഈ ദിവസം ആരംഭിക്കാൻ പോകുന്നുവെന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് നഷ്ടപ്പെടുത്തരുത് അതിനാൽ നിങ്ങൾ ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചും ഒരു കൂടിക്കാഴ്ചയെക്കുറിച്ചും ആരെയെങ്കിലും ഓർമ്മിപ്പിക്കുന്നു മോശം വാർത്തകൾ നൽകാൻ നിങ്ങൾ ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നു അടുത്തതിൽ നിങ്ങൾക്ക് ഇത് എങ്ങനെ ചെയ്യാമെന്ന് ഞങ്ങൾ കാണും എന്നാൽ ഇപ്പോൾ നിങ്ങൾ ഇവയെക്കുറിച്ച് ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്തിനാണ് ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നത് ചിലപ്പോൾ മോശം വാർത്തകൾ നൽകാൻ ചിലപ്പോൾ അത് ആശയങ്ങൾ ചർച്ച ചെയ്യുന്നതിന് മാത്രമായിരിക്കും നിങ്ങൾ ഒരുമിച്ച് പഠിക്കുന്നു നിങ്ങൾ ഒരുമിച്ച് ഗവേഷണം നടത്തുന്നു അല്ലെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളെപ്പോലെയാണ് തുടർന്ന് നിങ്ങൾ ആശയങ്ങൾ പങ്കിടുന്നത് തുടരുന്നു നിങ്ങൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ ദീർഘനേരം സംസാരിക്കുന്നു ചിലപ്പോൾ നിങ്ങൾ ഒരു വ്യക്തിയെ ഓഫീസ് ദിനചര്യയ്ക്കായി വിളിക്കുന്നു ഫയൽ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നതെന്ന് ആരോടെങ്കിലും പറയുന്നു ഫയൽ കൊണ്ടുവരാൻ ആരോടെങ്കിലും പറയുന്നു എന്തെങ്കിലും ഡൌൺലോഡ് ചെയ്യാൻ ആരോടെങ്കിലും പറയുന്നു അതിനാൽ നിങ്ങൾ ആരെയെങ്കിലും വിളിക്കുന്ന പതിവ് കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ സഹായത്തിനായി വിളിക്കാൻ ഫോൺ ഉപയോഗിക്കുന്നു അതിനാൽ ഒരു കള്ളനെപ്പോലുള്ള ഒരാൾ നിങ്ങളുടെ സമീപത്ത് അലഞ്ഞുതിരിയുന്നത് നിങ്ങൾ കണ്ടെത്തുന്നു നിങ്ങൾക്ക് സുരക്ഷയെ അറിയിക്കണം നിങ്ങൾക്ക് പോലീസിനെ വിളിക്കണം അതിനാൽ ഒരു വഴക്ക് ഉണ്ട് ഒരു വഴക്ക് ഉണ്ട് ആരോ പരസ്പരം അടിക്കുന്നു പതുക്കെ അത് ഒരുതരം വർഗീയ കലാപമായി മാറിയേക്കാം അതിനാൽ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ പോലീസിനെ വിളിക്കുന്നു നിങ്ങൾ സഹായത്തിനായി വിളിക്കുന്നു നിങ്ങൾ ഒരു ഫോൺ ഉണ്ടാക്കുന്നു ആരോ റോഡിൽ കിടക്കുന്നു അതിനാൽ ഒരുപക്ഷേ അത് ഒരു ഭീകരമായ അപകടമായിരിക്കാം അതിനാൽ നിങ്ങൾക്ക് ആംബുലൻസ് വിളിക്കണം അതിനാൽ നിങ്ങൾ സഹായത്തിനായി വിളിക്കുന്നു സഹായത്തിനായി വിളിക്കാൻ നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നു ടിക്കറ്റ് ബുക്ക് ചെയ്യുക ഭക്ഷ്യവസ്തുക്കൾ ഓർഡർ ചെയ്യുക തുടങ്ങിയ സേവനങ്ങൾക്കായി വിളിക്കാനും നിങ്ങൾ ടെലിഫോൺ ഉപയോഗിക്കുന്നു അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആരെയെങ്കിലും ഫോണിൽ വിളിക്കുന്നത് എപ്പോഴാണ് നിങ്ങൾ ഫോൺ ഉപയോഗിക്കുന്നത് നിങ്ങൾ വിളിക്കുന്ന കോളുകളും നിങ്ങൾ ആ കോളുകൾ വിളിക്കുന്ന രീതിയും നിങ്ങൾ ആരാണെന്ന് അവർ പറയും അതിനാൽ നിങ്ങൾ ചെയ്യുന്ന രീതിയെക്കുറിച്ചും എന്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്നും ചിന്തിക്കുക ഫോണിൽ ആരെ ഒഴിവാക്കുന്നുവെന്നും എന്തുകൊണ്ടാണെന്നും നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങൾക്ക് ഒരു കോൾ ചെയ്യാൻ താൽപ്പര്യമില്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു കോൾ ചെയ്യുന്നത് ഒഴിവാക്കാത്തത് എന്നിട്ട് നിങ്ങൾ ആരെയെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോണിൽ വിളിക്കുന്നത് ഒഴിവാക്കുന്ന വ്യക്തി ആരാണ് അത് വായ്പ നൽകിയ വ്യക്തിയാണോ നിങ്ങൾക്ക് പണം നൽകിയ പണമിടപാടുകാരനാണോ എന്നിട്ട് നിങ്ങൾക്ക് കുടിശ്ശിക അടയ്ക്കാൻ കഴിയാത്തതിനാൽ നിങ്ങൾ വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെ നിങ്ങളുടെ ശത്രു ഒരു കോൾ നൽകുന്നുണ്ടോ എന്നിട്ട് ആ ഫോൺ ഒഴിവാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ വീട്ടിൽ നിന്നോ ഓഫീസിൽ നിന്നോ പുറത്താണെന്ന് ആരോടെങ്കിലും പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ ലഭ്യമല്ലെന്ന് നുണ പറയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നല്ല ബന്ധമില്ലാത്ത നിങ്ങളുടെ അയൽക്കാരനാണോ നിങ്ങളുടെ മരം മറ്റൊരാളുടെ കോമ്പൌണ്ടിലേക്ക് വളരുകയും തുടർന്ന് ഇലകൾ വീഴുകയും ചെയ്യുന്നു തുടർന്ന് നിങ്ങൾ അതിനെക്കുറിച്ചോ അത്തരം പരാതികളെക്കുറിച്ചോ ഒന്നും ഇലകൾ വീഴുന്നു എന്നിട്ട് നിങ്ങൾ അതിനെക്കുറിച്ചോ അത്തരം പരാതികളെക്കുറിച്ചോ ഒന്നും ചെയ്യുന്നില്ലേ നിങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന അയൽക്കാരനാണോ അതോ നിങ്ങൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അപ്പോൾ നിങ്ങൾ പോലീസിനെ ഭയപ്പെടുന്നുണ്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കാം തെറ്റായ രീതിയിൽ ഉൾപ്പെടുത്തിയ അഴിമതി കേസായിരിക്കാം അപ്പോൾ നിങ്ങൾക്ക് അന്വേഷണ ഉദ്യോഗസ്ഥനെ പേടിയാണോ നിങ്ങൾ നിങ്ങളുടെ ബോസിനെ ഭയപ്പെടുന്നു തുടർന്ന് നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ബോസിനെ വിളിക്കാൻ ആഗ്രഹിക്കാത്തതിനാൽ ഫോണിൽ നിന്ന് വിട്ടുനിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ ഭാര്യയിൽ നിന്നോ ബന്ധുവിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിങ്ങളുടെ ഭാര്യയിൽ നിന്നോ ബന്ധുവിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ സഹപ്രവർത്തകരിൽ നിന്നോ ഉള്ള ഫോൺ കോൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ ഫോൺ കോളുകൾ നിങ്ങൾ ഒഴിവാക്കുമോ ഞങ്ങൾ പോലും കച്ചവടക്കാരിൽ നിന്നുള്ള കോളുകൾ തടയാൻ ശ്രമിക്കുന്നു കാരണം അവർ പരസ്യ കാര്യങ്ങൾ സൂക്ഷിക്കുന്നു ഞങ്ങൾക്ക് ഇഷ്ടമല്ല പക്ഷേ ആ കോളുകൾ ലഭിക്കാൻ പോലും ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് അവർ അത് ക്ഷമയോടെ കേൾക്കുകയും തുടർന്ന് ഏതൊക്കെ സാധനങ്ങൾ വാങ്ങണമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നു നിങ്ങൾ ഉപഭോക്താക്കളിൽ നിന്നുള്ള കോളുകൾ ഒഴിവാക്കുന്നുണ്ടോ ഉപഭോക്താക്കളിൽ നിന്നുള്ള കോളുകൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ടോ കാരണം ഉപഭോക്താവ് വന്ന് പരാതി നൽകുമെന്നോ അല്ലെങ്കിൽ ചില സേവനങ്ങൾ ചെയ്യാത്തതിൽ ഉപഭോക്താവിന് ദേഷ്യമുണ്ടാകുമെന്നോ നിങ്ങൾ വീണ്ടും അൽപ്പം ആശങ്കപ്പെട്ടേക്കാം വീണ്ടും നിങ്ങൾ ഈ കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒഴിവാക്കുന്ന കോളുകളും അവ ഒഴിവാക്കുന്ന രീതിയും അത് പറയാൻ നിങ്ങൾ ആരെയെങ്കിലും ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ നിങ്ങൾ മിസ്ഡ് കോളുകൾ നോക്കുന്നു തുടർന്ന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവയെല്ലാം നിങ്ങൾ ആരാണെന്ന് നിർണ്ണയിക്കും ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അവയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് കാണുകയും ചെയ്യുക തുടർന്ന് നിങ്ങൾ ചിന്തിക്കാനോ ബന്ധപ്പെട്ടിരിക്കാനോ ആഗ്രഹിക്കുന്ന മൂന്നാമത്തെ കൂട്ടം ചോദ്യങ്ങൾ നിങ്ങൾ ആരോടാണ് ഫോണിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കേണ്ടതുണ്ടെങ്കിൽ ആരോടെങ്കിലും സംസാരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഐൻസ്റ്റീൻ പറയുന്നതുപോലെ എല്ലായ്പ്പോഴും സമയം ആപേക്ഷികമാണ് അതിനാൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളുമായി സംസാരിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾ നിങ്ങൾ 3 മണിക്കൂർ സംസാരിച്ചാലും അത് 3 മിനിറ്റ് പോലെ കടന്നുപോകുന്നു എന്നാൽ അത് ബോസ് അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്നതായി കണക്കാക്കുന്ന ഒരാൾ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരാൾ അതിനാൽ 3 മിനിറ്റ് 3 മണിക്കൂറായി പോകും 3 മണിക്കൂറായി പോകും അപ്പോൾ നിങ്ങൾ സംസാരിക്കാൻ ഒരിക്കലും മടിക്കാത്ത ഈ വ്യക്തി ആരാണ് ഇത് ഒരു സഹപാഠിയാണോ ഒരു സുഹൃത്താണോ സുഹൃത്തുക്കൾക്കിടയിൽ സുഹൃത്തുക്കൾക്കിടയിൽ സഹപാഠികളോ അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഒരു പുതിയ സുഹൃത്തോ ഏത് സുഹൃത്തിനോട് സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ട് അത് ഒരു കാമുകനാണോ അതോ നിങ്ങളുടെ ഗുരുവാണോ ഇത് നിങ്ങളുടെ തൊഴിലുടമയാണോ ഭയപ്പെടുത്തുന്ന വ്യക്തിയായി ഞങ്ങൾ ബോസിനെ കണക്കാക്കുന്നുണ്ടെങ്കിലും അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ അവരുടെ ജീവനക്കാരെ തങ്ങളുടെ ജീവനക്കാരെ അവരുടെ കഴിവുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന പരോപകാരികളായ തൊഴിലുടമകൾ അതിനാൽ നിരവധി തൊഴിലുടമകളുണ്ട് യഥാർത്ഥത്തിൽ ഒരുതരം യോജിച്ച ചുറ്റുപാടുകൾ സൃഷ്ടിക്കുന്ന നിരവധി ആളുകൾ ഉണ്ട് തുടർന്ന് തൊഴിലാളികൾ പോലും തൊഴിലുടമയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ നിങ്ങളുടെ ബോസുമായി സംസാരിക്കാനും തുടർന്ന് നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കിടാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ വളരെ സഹാനുഭൂതിയുള്ളവരും വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തൊഴിലാളികൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന തൊഴിലാളികൾക്ക് സമ്മർദ്ദം സൃഷ്ടിക്കുന്ന കാര്യങ്ങൾ അവർ വളരെ സൌഹാർദ്ദപരമായ രീതിയിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളുടെ ഡോക്ടറുമായി സംസാരിക്കാനും എന്തെങ്കിലും പ്രശ്നം പങ്കിടാനും എന്തെങ്കിലും ഉപദേശം തേടാനും നിങ്ങൾ കാത്തിരിക്കുകയാണോ നിങ്ങളെത്തന്നെ വളർത്താൻ സഹായിക്കാനും നിങ്ങളുടെ വളർച്ചയിൽ നിങ്ങളെ സഹായിക്കാനും നിങ്ങളുടെ കഴിവുകൾ തിരിച്ചറിയാനും എപ്പോഴും ശ്രമിക്കുന്ന നിങ്ങളുടെ ഉപദേഷ്ടാവുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും താൽപ്പര്യമുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല വാർത്തകൾ പങ്കിടാനും തുടർന്ന് കൂടുതൽ ഉപദേശം തേടാനും ആഗ്രഹിക്കുന്ന ഏതെങ്കിലും അഭ്യുദയകാംക്ഷികളുണ്ടോ ഒരു പ്രചോദനക്കാരനുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ ആ വ്യക്തിക്ക് അവൻ ആ വ്യക്തിക്ക് അവൻ അല്ലെങ്കിൽ അവൾ നിങ്ങളെ പ്രചോദിപ്പിക്കുന്നുവെന്ന് അറിയാമായിരിക്കാം അല്ലെങ്കിൽ അത് അറിയില്ലായിരിക്കാം പക്ഷേ നിങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഒരു ഡോക്ടറെപ്പോലെയോ മറ്റാരെയെങ്കിലും പോലെയോ അല്ലെങ്കിൽ ഉയർന്ന പദവിയിൽ ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ രോഗിയോട് സംസാരിക്കാനും തുടർന്ന് ചില ആശങ്കകൾ പങ്കിടാനും അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ള നിങ്ങളുടെ വിദ്യാർത്ഥിയോട് നിങ്ങൾ ഒരു അധ്യാപകനോ വിദ്യാഭ്യാസ പാതയിലുള്ള ഒരാളോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ആവശ്യമുള്ള വിദ്യാർത്ഥിയാണോ ജ്യോതിഷിയോട് സംസാരിക്കണമെന്നുണ്ടോ പലരും അവരുടെ ദിവസം ആരംഭിക്കാൻ ഒരു ജ്യോതിഷിയോട് സംസാരിക്കാനോ അല്ലെങ്കിൽ വീട്ടിൽ സന്തോഷകരമായ ഒരു സംഭവം നടക്കാനോ അല്ലെങ്കിൽ മോശമായി എന്തെങ്കിലും സംഭവിക്കാനോ ആഗ്രഹിക്കുന്നു അവർ ജ്യോതിഷിയോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു അപരിചിതനുമായി സംസാരിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ അതിനാൽ ഇന്ന് അതിനാൽ ഇന്ന് ആളുകൾക്ക് അറിയാത്ത ഒരാളെ വിളിക്കാൻ പോലും താൽപ്പര്യമുണ്ട് അവർ ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നു പറയുക അവർ ചില നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നു ക്രമരഹിതമായി അവർ വിളിക്കുന്നു തെറ്റായ കോളുകൾ ചെയ്തുകൊണ്ട് അവർ ശരിയായ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നു അപ്പോൾ നിങ്ങൾ ഒരു അപരിചിതനെ വിളിച്ച് നിങ്ങളുടെ അവസരം മുതലെടുക്കാൻ മൊത്തത്തിൽ നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളും അവരുമായി സംസാരിക്കുന്ന രീതിയും നിങ്ങൾ ആരാണെന്ന് വീണ്ടും പറയും അതിനാൽ ഈ ചോദ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക നിങ്ങൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർ ആരാണ് ഇപ്പോൾ ഫോൺ കോളുകൾ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വളരെ രസകരവും വൈരുദ്ധ്യാത്മകവുമായ കാരണങ്ങളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി ഇപ്പോൾ വൈരുദ്ധ്യപരമായ കാരണങ്ങളാൽ ഒരു വൈരുദ്ധ്യം വളരെ പരസ്പരവിരുദ്ധമായ ഒരു കാര്യമാണെന്ന് തോന്നുന്നു എന്നാൽ നിങ്ങൾ അവയെ നോക്കുകയും ഒരു സന്ദർഭത്തിൽ അവയെ ഒരുമിച്ച് ചേർക്കുകയും ചെയ്യുമ്പോൾ അത് അർത്ഥവത്താണ് ടെലിഫോണിന്റെ ഉപയോഗവുമായി ബന്ധപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളും മനുഷ്യ ആശയവിനിമയത്തിന്റെ കാര്യത്തിൽ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട ചില വൈരുദ്ധ്യങ്ങളും നോക്കുക അതിനാൽ ഫോൺ കോളുകൾ സാധാരണയായി നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവ ഞങ്ങളെ ആളുകളുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ അവർ ഈ കണക്ഷനുകൾ സാധ്യമാക്കുന്നു അവ മനുഷ്യ ആശയവിനിമയത്തെ ഊഷ്മളവും സജീവവുമാക്കുന്നു പക്ഷേ അവർക്ക് ആളുകളെ വിച്ഛേദിക്കാനും കഴിയും എത്ര തവണ ഞങ്ങൾ ഫോൺ താഴ്ത്തി എന്നിട്ട് ദേഷ്യത്തോടെ എന്തെങ്കിലും പറയുന്നു ഞങ്ങൾ ആ വ്യക്തിയുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ആ വ്യക്തിയോട് നിലവിളിക്കുന്നു ഞങ്ങൾ ആ വ്യക്തിയെ അറിയിക്കുന്നു ഒന്നിലധികം കോളുകൾ പോലും ചെയ്യുന്നു നിരവധി കോളുകൾ ചെയ്തിട്ടുണ്ട് അതിനാൽ ഞങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നു അതൊരു വൈരുദ്ധ്യമല്ലേ കണക്റ്റുചെയ്യാൻ ഫോൺ നിങ്ങളെ സഹായിക്കുന്നു കണക്റ്റുചെയ്യാൻ ഫോൺ നിങ്ങളെ സഹായിക്കുന്നു തുടർന്ന് നിങ്ങൾ ഈ ആളുകളിൽ ചിലരെ തണുത്തതും ശ്രദ്ധിക്കാത്തതുമായി വിടുന്നു നിങ്ങൾക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ താൽപ്പര്യമില്ലാത്തപ്പോൾ അവർ പൂർണ്ണമായും വിച്ഛേദിക്കപ്പെടുന്നു അവർക്ക് എത്ര തണുപ്പ് എത്ര അശ്രദ്ധ എത്ര അനുകമ്പയില്ലായ്മ എന്നിവ അനുഭവപ്പെടുന്നു എന്നത് നിങ്ങൾ കാര്യമാക്കുന്നില്ല പിന്നെ ചിലരെ വിളിക്കുന്നത് വെറുക്കുന്ന ചിലരുണ്ടെങ്കിലും അവരിൽ നിന്ന് കോളുകൾ ലഭിക്കാൻ ഇഷ്ടപ്പെടുന്ന മറ്റു ചിലരുണ്ടെങ്കിലും അത് മറ്റൊരു വിരോധാഭാസം തന്നെയാണ് അതിനാൽ അർത്ഥമില്ലെന്ന് കരുതി ചിലരെ വിളിക്കാൻ ആഗ്രഹിക്കാത്ത ചിലരുണ്ട് എന്നാൽ ഏതെങ്കിലും അർത്ഥത്തിൽ എന്നാൽ ആ ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആളുകളിൽ നിന്നുള്ള കോളുകൾക്കായി കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് പോലും ചിലപ്പോൾ വിദൂര സ്ഥലങ്ങളിൽ സ്ഥിരതാമസമാക്കിയ കുട്ടികൾ തുടർന്ന് മാതാപിതാക്കളും മുത്തശ്ശിമാരും ഒരു കോളിനായി കാത്തിരിക്കുന്നതുപോലുള്ള സാഹചര്യങ്ങളാണ് തിരക്കേറിയ സമയക്രമത്തിൽ തങ്ങളെ വിളിക്കാനോ തങ്ങൾക്ക് സംഭവിക്കുന്ന വളരെ നിസ്സാരമായ കാര്യങ്ങൾ പറയാനോ പോലും സമയം ഇല്ലെന്ന് കുട്ടികൾ കരുതുന്നു അതേസമയം മാതാപിതാക്കളും മുത്തശ്ശിമാരും അവരിൽ നിന്ന് ഒരു ചെറിയ നിസ്സാര വിവരങ്ങൾ കേൾക്കാൻ കാത്തിരിക്കുകയാണ് അത് അവരെ വളരെ സന്തോഷിപ്പിക്കും അതിനാൽ ഇത് ഒരു വിരോധാഭാസമായ കാര്യമാണ് ഒരു ഫോൺ കോളിന് നിരവധി ആത്മഹത്യകൾ ഒഴിവാക്കാമായിരുന്നു ആരെങ്കിലും തങ്ങളോട് ശരിയായ സമയത്ത് സംസാരിച്ചുവെന്നും അത് അവരുടെ മനസ്സ് മാറ്റാൻ സഹായിച്ചുവെന്നും ആളുകൾ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട് ദ ഫാൾ എന്ന നോവലിൽ ആൽബർട്ട് കാമുസ് സമാനമായ സംഭവങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ യഥാർത്ഥത്തിൽ വിളിക്കാനോ വൈകാരികമായി ബന്ധപ്പെടാനോ ആരും ഇല്ലെന്ന തിരിച്ചറിവോടെ പെട്ടെന്നു ആത്മഹത്യ ചെയ്യുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി ആത്മഹത്യ ചെയ്യാൻ ആഗ്രഹിച്ച ദിവസം ഒരു സുഹൃത്തും തന്നെ വിളിക്കാത്ത ദിവസമാണ് എന്നത് വീണ്ടും വൈരുദ്ധ്യമുള്ള കാര്യമാണെന്ന് അദ്ദേഹം കരുതുന്നു അതിനാൽ ഒരു സുഹൃത്ത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിൽ ഒരു കുടുംബാംഗം മാത്രമേ അദ്ദേഹത്തെ വിളിച്ചിരുന്നുള്ളൂവെങ്കിൽ ഒരുപക്ഷേ നിങ്ങൾ ആത്മഹത്യ ചെയ്യുന്നത് ഒഴിവാക്കുമായിരുന്നു ഇപ്പോൾ ഫോൺ കോളുകൾക്ക് നിങ്ങൾക്ക് ജീവൻ നൽകാൻ കഴിയും ഫോൺ കോളുകൾ പ്രധാനപ്പെട്ട സമയത്ത് ചെയ്യാതെ ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കും അതിനാൽ ഒരു കോൾ ചെയ്യാതിരുന്നത് നിരവധി ആളുകളെ സന്തോഷകരമായ ജീവിതം നയിക്കുമായിരുന്നു ഫോൺ വിളിക്കുന്നത് ആളുകളെ സന്തോഷകരമായ ജീവിതം നയിക്കാനും സഹായിക്കും അതിനാൽ ഫോൺ കോളുകൾ വിവേകത്തോടെയും ഫലപ്രദമായും ഉപയോഗിക്കേണ്ടത് പ്രധാനമാണ് അതിനാൽ മൊത്തത്തിൽ ഞാൻ പറയും ഫോൺ കോളുകൾ മനുഷ്യ ആശയവിനിമയത്തിന്റെ പ്രധാന വശമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൂടുതൽ ചെയ്യാൻ കഴിയും അതിനാൽ നിങ്ങൾ അത് ഉപയോഗിക്കുന്ന രീതി അത് നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ പോകുന്നു അത് നിങ്ങളുടെ വ്യക്തിത്വത്തെ നിങ്ങളുടെ വ്യക്തിത്വം അത് മനുഷ്യ ആശയവിനിമയത്തിന്റെ വളരെ അവിഭാജ്യ ഘടകമായി മാറിയിരിക്കുന്നു ഇന്ന് അത് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ കഴിയില്ല വരാനിരിക്കുന്ന പ്രഭാഷണത്തിൽ ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ വിപുലീകരണത്തിലൂടെ നമ്മൾ എങ്ങനെയാണെന്ന് പിന്നെ ഞാൻ മൊബൈലിലേക്ക് പോകുന്നതിനുമുമ്പ് ടെലിഫോൺ കൈകാര്യം ചെയ്യുന്നതിനുള്ള ചില പ്രൊഫഷണൽ വഴികളും ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കും ഇപ്പോൾ അടുത്തതിലെ പ്രൊഫഷണൽ കഴിവുകളിലേക്ക് പോകുന്നതിനുമുമ്പ് ചില അടിസ്ഥാന കഴിവുകൾ ടെലിഫോൺ ഉപയോഗിക്കുന്നതിനുള്ള അടിസ്ഥാന കഴിവുകൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളിൽ പലരും ഇത് പരോക്ഷമായി ഉപയോഗിക്കുന്നുണ്ടാകാം പക്ഷേ ഇത് പരസ്യമായി ഉപയോഗിക്കാൻ പഠിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു നിങ്ങൾ എന്തിനാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ടെലിഫോൺ വാക്കാലുള്ള ആശയവിനിമയത്തിൽ നിന്ന് വ്യത്യസ്തമാണെന്ന് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുന്നു അതായത് ഓരോ വ്യക്തിക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തിക്കും മുഖാമുഖം നിങ്ങളുടെ വ്യക്തിയുമായി നിങ്ങൾ മുഖാമുഖം സംസാരിക്കുന്ന രീതി ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമാണ് ഇപ്പോൾ ഇത് പ്രധാനമാണ് കാരണം നിങ്ങൾ ആരോടെങ്കിലും മുഖാമുഖം സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് എന്താണ് തോന്നുന്നത് എന്നതിനെ മറ്റൊരാൾക്ക് എന്താണ് തോന്നുന്നത് എന്നതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ഭാവങ്ങൾ ക്രമീകരിക്കുക നിങ്ങൾക്ക് നിങ്ങളുടെ ആശയവിനിമയം നിർത്താം അതിനെ ആശ്രയിച്ച് നിങ്ങളുടെ ആശയവിനിമയം വിപുലീകരിക്കാം മുന്നിൽ ഇരിക്കുന്ന വ്യക്തിയുടെ താൽപ്പര്യമില്ലായ്മയെ ആശ്രയിച്ച് നിങ്ങളുടെ ആശയവിനിമയം വിപുലീകരിക്കാം എന്നാൽ ഒരു ഫോണിൽ നിങ്ങൾക്ക് ഒരു വശത്ത് ഒരു സൂചനയില്ല മറുവശത്ത് ആ വ്യക്തി തൻറെ ആശയങ്ങൾ വ്യക്തി തൻ്റെ ആശയങ്ങൾ ആശയവിനിമയം നടത്തുന്നതിനുള്ള വാക്കാലുള്ള അടിത്തറ പ്രകടിപ്പിക്കുന്ന രീതിയെ അടിസ്ഥാനമാക്കി മാത്രം ചില സൂചനകൾ എടുക്കുക ഇപ്പോൾ ഇത് മനസ്സിൽ വച്ചുകൊണ്ട് നിങ്ങൾ ടെലിഫോൺ വളരെ ശ്രദ്ധാപൂർവ്വം ഉപയോഗിക്കണമെന്ന് ഓർക്കുക നിങ്ങൾക്ക് ആരെയെങ്കിലും മുഖാമുഖം ഒഴിവാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും ടെലിഫോൺ മുഖാമുഖം നിങ്ങൾക്ക് ഇപ്പോഴും ടെലിഫോൺ ഉപയോഗിക്കാം പക്ഷേ നിങ്ങൾ അത് ഉപയോഗിക്കുമ്പോൾ അത് വളരെ വിവേകത്തോടെ ഉപയോഗിക്കണം ഇപ്പോൾ ആരെങ്കിലും നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോൾ ആ വ്യക്തി നിങ്ങൾക്ക് കുറച്ച് വിവരങ്ങൾ നൽകാൻ പോകുന്നു നിങ്ങൾ അത് രേഖപ്പെടുത്തേണ്ടതുണ്ട് ഇപ്പോൾ നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ വ്യക്തിയോട് വീണ്ടും വിളിക്കാൻ ആവശ്യപ്പെടുക അങ്ങനെ നിങ്ങൾ നോട്ട് ബുക്ക് തയ്യാറാക്കാൻ നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം അല്ലെങ്കിൽ നിങ്ങൾ വാഹനമോടിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കഴിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ചില അതിഥികളെ പരിചരിക്കുകയോ ചെയ്യുന്നു ഇപ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യരുത് പ്രത്യേകിച്ചും നിങ്ങൾ ഫോണിൽ ആരോടെങ്കിലും സംസാരിക്കേണ്ടിവരുമ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒരു പേനയും പേപ്പറും സൂക്ഷിക്കുക അത് ഒരു വ്യക്തിഗത കോൾ ആണെങ്കിൽ പോലും അതിനാൽ പേനയും പേപ്പറും നിങ്ങളുടെ ടെലിഫോണിന് സമീപം നിങ്ങളുടെ ടെലിഫോണിനോ അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് ബുക്കിനോ സമീപം ചെറിയ പോയിന്റുകളെങ്കിലും നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്ന മെമ്മോ നോട്ട് ഒരു വ്യക്തിഗത കോളിൽ പോലും പ്രധാനപ്പെട്ട കാര്യം നഷ്ടപ്പെടുത്തരുത് പ്രത്യേകിച്ച് നിങ്ങൾ ആരെയെങ്കിലും വിളിച്ച് വിവരങ്ങൾ കൈമാറുന്നുവെന്ന് അല്ലെങ്കിൽ നിങ്ങൾ അവർക്കായി ഇത് ചെയ്യുന്നുവെന്ന് ആരെങ്കിലും നിങ്ങളോട് പറയുന്നു അതിനാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുടെ പട്ടികയിൽ പ്രത്യേകിച്ച് അക്കങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നിങ്ങൾക്ക് ഒരു നിങ്ങൾ ഒരു സംഖ്യയാണ് അതിനാൽ സംഖ്യയുടെ കാര്യത്തിൽ ഒരു പിശക് വരുത്തുന്നത് വളരെ ദോഷകരമാണെന്ന് ശ്രദ്ധിക്കരുത് നിങ്ങൾ വലംകൈയ്യൻ ആണെങ്കിൽ ഫോൺ ഇടതുവശത്ത് വയ്ക്കുക വലതുവശത്ത് കുറിപ്പുകൾക്കായി വലതുവശത്ത് ഉപയോഗിക്കുക നിങ്ങൾ ഒരു വലതുവശത്തുള്ള നോട്ടുകൾക്കായി നിങ്ങൾ ഒരു നോട്ട്പാഡ് അല്ലെങ്കിൽ ഒരു ചെറിയ നോട്ട് ബുക്ക് സൂക്ഷിക്കുകയും അവിടെ നിങ്ങൾ വേഗത്തിൽ നോട്ടുകൾ എടുക്കുകയും ചെയ്യുന്നു അതിനാൽ ആ ഇടതുവശത്ത് നിങ്ങൾക്ക് റിസീവറെ എടുത്ത് ആ വ്യക്തിയെ ശ്രദ്ധിക്കാം കൂടാതെ സാധാരണയായി ശാസ്ത്രീയമായി പോലും നിർദ്ദേശിക്കപ്പെടുന്നു നിങ്ങൾ ഇടത് ചെവി സാധാരണയായി കേൾക്കാൻ ഉപയോഗിക്കുന്നു വലത് ചെവി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുക അതിനാൽ നൽകിയിരിക്കുന്ന നിർദ്ദേശമാണിത് അതിനാൽ അത് ചെയ്യാൻ ശ്രമിക്കുക കുറിപ്പുകൾ എടുക്കുന്നതിനും പുഞ്ചിരിക്കുന്നതിനും അല്ലെങ്കിൽ നിങ്ങൾ സന്തോഷവാനാണെന്ന് കാണിക്കുന്നതിനും വലതുകൈ ഉപയോഗിക്കുക ഇപ്പോൾ നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ശബ്ദം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ അത് ചെയ്യുമ്പോൾ മറ്റേയാൾക്ക് നിങ്ങൾ പുഞ്ചിരിക്കുകയാണെന്നും മറ്റേയാൾക്ക് സുഖം തോന്നുന്നുവെന്നും കോളിനെക്കുറിച്ച് സന്തോഷം തോന്നുന്നുവെന്നും ഒരാൾക്ക് അനുഭവപ്പെടാം മറ്റേയാൾ കോൾ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമയോടെ കാത്തിരിക്കുക ആ വ്യക്തി കോൾ ചൂണ്ടിക്കാണിക്കുന്നതുവരെ നിങ്ങൾക്ക് വളരെ അടിയന്തിരമായി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് പൂർത്തിയാക്കാൻ തിരക്കുകൂട്ടരുത് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു പ്രധാന കാര്യം ഉണ്ടെന്ന് മാന്യമായി പറയാൻ കഴിയും അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഒരു നിങ്ങൾ പങ്കെടുക്കേണ്ട ഒരു അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്രധാന ഇവന്റ് തുടർന്ന് നിങ്ങൾക്ക് അത് മാന്യമായി പറയാം സമയത്തിന്റെ കാര്യത്തിൽ അത് ശ്രദ്ധിക്കുക പക്ഷേ ഞാൻ പറഞ്ഞതുപോലെ തിടുക്കപ്പെടരുത് മറ്റേയാൾ വിളിക്കുകയും തുടർന്ന് ആ വ്യക്തി സംസാരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സജീവമായ ശ്രവണത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് നൽകിയ നുറുങ്ങുകൾ ഓർക്കുക മറ്റേയാളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുക അതിനാൽ നിങ്ങൾ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തുന്നില്ല അതിനാൽ മറ്റേയാൾക്ക് തണുത്തുറഞ്ഞതായി തോന്നുന്നു അതിനാൽ നിങ്ങൾ എല്ലാ ആശയവിനിമയങ്ങളും ചെയ്യുന്നില്ല അത് ഒരു വിധത്തിൽ ദ്വിമുഖ ആശയവിനിമയമാക്കി മാറ്റരുത് മറുവശത്ത് നിങ്ങൾ ശാന്തവും ആശ്വാസകരവുമാണ് അങ്ങനെ മറ്റേയാൾ നിങ്ങളോട് കൂടുതൽ സംസാരിക്കുന്നു മറ്റേയാൾ നിങ്ങളെ പ്രകോപിപ്പിക്കാനോ പ്രകോപനപരമായ എന്തെങ്കിലും പറയാനോ നിങ്ങളെക്കുറിച്ച് ഈ വ്യക്തി കേട്ട ഒരു ഗോസിപ്പ് കൈമാറാനോ ശ്രമിക്കുകയാണെങ്കിൽപ്പോലും നിങ്ങളുടെ കോപം നഷ്ടപ്പെടുത്തരുത് തുടർന്ന് നിങ്ങളുടെ കോപം നഷ്ടപ്പെടുത്തരുത് കുറഞ്ഞത് ഫോണിലെങ്കിലും ഇത് ചെയ്യരുത് ഭക്ഷണം കഴിക്കുകയോ ചവയ്ക്കുകയോ ചെയ്യരുത് ഉദാഹരണത്തിന് ആരെങ്കിലും നിങ്ങളോട് സംസാരിക്കുമ്പോൾ ച്യൂയിംഗ് ഗം ചവയ്ക്കുകയോ എന്തെങ്കിലും കുഴിച്ചെടുക്കുകയോ ചെയ്യുന്നത് അപമര്യാദയാണ് ഇത് നിങ്ങൾക്ക് സംസ്കാരമുള്ള പെരുമാറ്റമുണ്ടെന്ന് കാണിക്കുന്നില്ല അത് വേഗത്തിൽ അത് വേഗത്തിൽ പൂർത്തിയാക്കാൻ നിങ്ങൾക്ക് ആരോടെങ്കിലും ക്ഷമിക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തി മറ്റൊരാളുമായി സംസാരിക്കാം നിങ്ങൾക്ക് തിരികെ പോകേണ്ടിവന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങിവരാൻ കഴിയുന്ന വ്യക്തിയെ കേൾക്കാൻ മാത്രമാണ് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയതെന്ന് ആ വ്യക്തിയോട് പറയുക അല്ലെങ്കിൽ അത് പ്രധാനപ്പെട്ട ഒന്നാണെങ്കിൽ നിങ്ങൾ എന്നിട്ട് കോൾ അവസാനിപ്പിച്ച് ഭക്ഷണം കഴിക്കുന്നത് തുടരുക രണ്ടും ഒരുമിച്ച് ചവച്ചരച്ച് കഴിക്കരുത് നിങ്ങൾ ചവയ്ക്കുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ശബ്ദവും നിങ്ങൾക്ക് എന്തെങ്കിലും ശരിയായി പറയാൻ പോലും കഴിയാത്തതും നിങ്ങൾ ഒരു നമ്പർ അല്ലെങ്കിൽ മറ്റേയാൾക്ക് കേൾക്കാൻ കഴിയാത്ത ഒരു പ്രധാന കാര്യം പറയുമ്പോൾ തെറ്റായ ആശയവിനിമയത്തിന് ഉയർന്ന സാധ്യതയുണ്ട് ഒരു ഫോൺ കോൾ വന്നാൽ വായന നിർത്തുക അതിനാൽ നിങ്ങൾ വളരെ രസകരമായ ഒരു നോവൽ വായിക്കുന്ന മധ്യത്തിലാണ് ആരാണ് അത് ചെയ്തത് അടുത്ത പേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട സസ്പെൻസ് വെളിപ്പെടുത്താൻ പോകുന്നു അതിനാൽ നിങ്ങളുടെ മനസ്സ് അവിടെയുണ്ട് പക്ഷേ ഫോൺ കോൾ അടുത്തുവന്നിരിക്കുന്നു പുസ്തകം കോളുമായി തുടരുന്നു നിങ്ങളുടെ കമ്പ്യൂട്ടറിലോ ലാപ്ടോപ്പിലോ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുമ്പോൾ ഫോൺ കോൾ വന്നാൽ വീണ്ടും ടൈപ്പ് ചെയ്യുന്നത് നിർത്തുക നിങ്ങൾ അത് ചെയ്യുമ്പോൾ വാക്കാലുള്ള പ്രോത്സാഹനം നൽകുക കാരണം മറ്റേയാൾ നിങ്ങൾക്ക് ദൃശ്യമല്ല നിങ്ങളുടെ കാര്യത്തിൽ പോലും ഇത് ഇപ്പോൾ മുഖാമുഖം ആശയവിനിമയമല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ചില വാക്കാലുള്ള പ്രോത്സാഹനം നൽകാൻ കഴിയുമെങ്കിൽ ഉദാഹരണത്തിന് കൂടുതൽ പറയൂ നിങ്ങൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദയവായി മുന്നോട്ട് പോകുക അതിനാൽ ഈ വാക്കാലുള്ള പ്രോത്സാഹനങ്ങൾ മറ്റേ വ്യക്തിയെ തുടരാൻ പ്രേരിപ്പിക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ പറയുകയും ചെയ്യും ഇപ്പോൾ ഇവ ചില അടിസ്ഥാന ടെലിഫോൺ കഴിവുകളാണ് തുടർന്ന് നിങ്ങൾ പൊതുവെ നിസ്സാരമായി എടുക്കുന്ന ചില അടിസ്ഥാന കാര്യങ്ങളുണ്ട് എന്നാൽ ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളോട് പറയണം ഹലോ പോലുള്ള മാന്യമായ മനോഹരമായ പരാമർശങ്ങൾ ചോദിക്കുക നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു തുടർന്ന് ദയവായി നന്ദി പറയുക തുടർന്ന് വീണ്ടും ആ വ്യക്തി നന്ദി പറയുമ്പോൾ ആദ്യം സ്വാഗതം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും സ്വാഗതം എന്ന് പറയുകയും തുടർന്ന് ഈ ദിവസം നിങ്ങളെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നതുപോലെ ഒരുതരം പ്രതീക്ഷയോടെ അവസാനിക്കുകയും ചെയ്യുന്നു നമുക്ക് നാളെ പാർട്ടിയിൽ കണ്ടുമുട്ടാം അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് വീണ്ടും വിളിക്കാൻ കാത്തിരിക്കാം അതിനാൽ ഈ കാര്യങ്ങൾ അടിസ്ഥാനപരമാണ് പക്ഷേ വീണ്ടും ഞാൻ വീണ്ടും ഊന്നിപ്പറയുന്നു അതിനാൽ ക്ഷമിക്കണം ഇവ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതും ടെലിഫോൺ കഴിവുകളിൽ കൂടുതൽ പ്രാധാന്യമുള്ളതുമായ മൊത്തത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് മര്യാദകളാണ് അടുത്തതിൽ നമ്മൾ കൂടുതൽ നോക്കും എന്നാൽ ഒരു പ്രശസ്ത നോവലിസ്റ്റും പത്രപ്രവർത്തകനുമായ ഒരു ചിന്തയോടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഇത് വീണ്ടും നോക്കൂ ടെലിഫോൺ ഉപയോഗിക്കുന്നതിന്റെ വൈരുദ്ധ്യവും അദ്ദേഹം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുന്നു ആളുകൾ ടെലിഫോൺ എന്ന് വിളിക്കുന്നത് അവർ ഉപയോഗിച്ചതിനാൽ അവർ വെറുത്തിരുന്നു അതിനാൽ ഒരുമിച്ചു നിൽക്കുന്നത് അവർ വെറുത്തു അതിനാൽ അവർ ഫോൺ ഉപയോഗിച്ചുവെങ്കിലും തനിച്ചായിരിക്കാൻ അവർ ഭയപ്പെട്ടു അതിനാൽ അവരും ഒഴിവാക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ പറഞ്ഞതുപോലെ ഫോൺ വിടവ് നികത്തുന്ന ഒന്നാണ് പക്ഷേ നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനെ നിങ്ങൾ അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നത് ഉപയോക്താവിനെ ആശ്രയിച്ചിരിക്കുന്നു നിങ്ങൾക്ക് അത് ബന്ധിപ്പിക്കാം അല്ലെങ്കിൽ ആശയവിനിമയ ശൃംഖല അടയ്ക്കാം അതിനാൽ നിങ്ങൾ ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നുവെന്ന് തീരുമാനിക്കുക ഞാൻ ചോദിച്ച ചോദ്യങ്ങളെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുക നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ വ്യക്തിത്വം വിലയിരുത്തുക നിങ്ങൾ എവിടെയാണ് ആളുകൾ ഓടിപ്പോകാൻ ആഗ്രഹിക്കുന്ന ആളാണോ നിങ്ങൾ ആരുടെ കോളുകൾ ആളുകൾ ഒഴിവാക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ആ വ്യക്തിയാക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് കേൾക്കാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ഇഷ്ടപ്പെടുന്നു അതിനാൽ എല്ലായ്പ്പോഴും ആളുകൾ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ആളുകൾ നിങ്ങളുടെ അടുത്ത പ്രഭാഷണം വീണ്ടും കേൾക്കാൻ ആഗ്രഹിക്കുന്നു അതുവരെ ഒരു പ്രൊഫഷണൽ ടെലിഫോൺ ഉപയോക്താവാകുന്നതിനുള്ള കൂടുതൽ നുറുങ്ങുകൾ നിങ്ങൾക്ക് നൽകും ഈ വീഡിയോ കണ്ടതിന് ഞാൻ നന്ദി പറയുകയും നന്ദി പറയുകയും ചെയ്യുന്നു

നന്ദി